പേറ്റന്റബിലിറ്റി തിരയൽ ആവശ്യമില്ലാത്തത് എപ്പോൾ പേറ്റന്റബിലിറ്റി തിരയൽ ആവശ്യമായിവരാത്തതോ പേറ്റന്റബിലിറ്റി തിരയൽ നടത്തുന്നത് വിപരീത ഫലം ഉണ്ടാക്കിയേക്കാവുന്നതോ ആയ മൂന്ന് സാഹചര്യങ്ങൾ ഉണ്ട് പേറ്റന്റബിലിറ്റി തിരയൽ ആവശ്യമില്ലാത്തത് എപ്പോൾ പേറ്റന്റബിലിറ്റി തിരയൽ ആവശ്യമായിവരാത്തതോ പേറ്റന്റബിലിറ്റി തിരയൽ നടത്തുന്നത് വിപരീത ഫലം ഉണ്ടാക്കിയേക്കാവുന്നതോ ആയ മൂന്ന് സാഹചര്യങ്ങൾ ഉണ്ട് പേറ്റന്റബിളിറ്റി തിരയൽ നടത്തുന്നതിനും പേറ്റന്റ് അപേക്ഷ ഡ്രാഫ്റ്റു ചെയ്യുന്നതിനും ഫയൽ ചെയ്യുന്നതിനുമുള്ള ഫയലിംഗ് ചെലവ് ക്ലയന്റിന് താങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ആദ്യത്തേത് പേറ്റന്റബിളിറ്റി തിരയൽ നടത്തുന്നതിനും പേറ്റന്റ് അപേക്ഷ ഡ്രാഫ്റ്റു ചെയ്യുന്നതിനും ഫയൽ ചെയ്യുന്നതിനുമുള്ള ഫയലിംഗ് ചെലവ് ക്ലയന്റിന് താങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് ആദ്യത്തേത് പേറ്റന്റുകൾ ഫയൽ ചെയ്യുന്നതിനായി ക്ലയന്റിന് ലഭിക്കുന്ന തുകയെയോ ബജറ്റിനെയോ ആശ്രയിച്ചായിരിക്കും ഇത് പേറ്റന്റുകൾ ഫയൽ ചെയ്യുന്നതിനായി ക്ലയന്റിന് ലഭിക്കുന്ന തുകയെയോ ബജറ്റിനെയോ ആശ്രയിച്ചായിരിക്കും ഇത് അതിനാൽ ക്ലയന്റ് അധികം തുക ചിലവാക്കാൻ കഴിയാത്ത ബജറ്റിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പേറ്റന്റ് നൽകാനുള്ള തിരയൽ റിപ്പോർട്ടിനായി പോകുന്നതും പേറ്റന്റ് ഫയൽ ചെയ്യുന്നതും ഡ്രാഫ്റ്റ് ചെയ്യുന്നതും ഉചിതമല്ല അതിനാൽ ക്ലയന്റ് അധികം തുക ചിലവാക്കാൻ കഴിയാത്ത ബജറ്റിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ പേറ്റന്റ് നൽകാനുള്ള തിരയൽ റിപ്പോർട്ടിനായി പോകുന്നതും പേറ്റന്റ് ഫയൽ ചെയ്യുന്നതും ഡ്രാഫ്റ്റ് ചെയ്യുന്നതും ഉചിതമല്ല പ്രത്യേകിച്ചും തിരച്ചിൽ ചിലവ് ഗണ്യമായ ഇന്ത്യ പോലുള്ള ഒരു വിപണിയിൽ പേറ്റന്റ് ലഭിക്കും എന്ന പ്രതീക്ഷയോടെ പണം മുടക്കിയ ശേഷം പേറ്റന്റ് ലഭിക്കാൻ സാധ്യതയില്ല എന്ന തിരിച്ചറിയുന്നത് ക്ലയന്റിനെ സാമ്പത്തികമായി അപകടകരമായ അവസ്ഥയിൽ എത്തിക്കും പ്രത്യേകിച്ചും തിരച്ചിൽ ചിലവ് ഗണ്യമായ ഇന്ത്യ പോലുള്ള ഒരു വിപണിയിൽ പേറ്റന്റ് ലഭിക്കും എന്ന പ്രതീക്ഷയോടെ പണം മുടക്കിയ ശേഷം പേറ്റന്റ് ലഭിക്കാൻ സാധ്യതയില്ല എന്ന തിരിച്ചറിയുന്നത് ക്ലയന്റിനെ സാമ്പത്തികമായി അപകടകരമായ അവസ്ഥയിൽ എത്തിക്കും അതിനാൽ ആദ്യം പരിഗണിക്കേണ്ട കാര്യം ചിലവ് താങ്ങാവുന്നതാണോ തിരച്ചിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം പേറ്റന്റ് അപേക്ഷ ഫയൽ ചെയ്യാൻ കഴിയുമോ അതോ പേറ്റന്റ് അപേക്ഷ തന്നെ തയ്യാറാക്കി ഫയൽ ചെയ്യാൻ കഴിയുമോ മുതലായ കാര്യങ്ങളാണ് അതിനാൽ ആദ്യം പരിഗണിക്കേണ്ട കാര്യം ചിലവ് താങ്ങാവുന്നതാണോ തിരച്ചിൽ റിപ്പോർട്ട് ലഭിച്ച ശേഷം പേറ്റന്റ് അപേക്ഷ ഫയൽ ചെയ്യാൻ കഴിയുമോ അതോ പേറ്റന്റ് അപേക്ഷ തന്നെ തയ്യാറാക്കി ഫയൽ ചെയ്യാൻ കഴിയുമോ മുതലായ കാര്യങ്ങളാണ് ചില സാഹചര്യങ്ങൾ ക്ലയന്റ് ഒരു സർവ്വകലാശാല പ്രൊഫസറാണെങ്കിൽ തന്റെ പേപ്പർ തിടുക്കത്തിൽ പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ ഫലമായിട്ടുമാകാം ചില സാഹചര്യങ്ങൾ ക്ലയന്റ് ഒരു സർവ്വകലാശാല പ്രൊഫസറാണെങ്കിൽ തന്റെ പേപ്പർ തിടുക്കത്തിൽ പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നതിന്റെ ഫലമായിട്ടുമാകാം അപ്രകാരമാണെങ്കിൽ നിങ്ങൾ പേറ്റന്റബിലിറ്റി തിരയൽ റിപ്പോർട്ടിന് അപേക്ഷിക്കയില്ല മറിച്ച് നിങ്ങൾ താൽക്കാലിക പേറ്റന്റിനായിരിക്കും ഫയൽ ചെയ്യുക അപ്രകാരമാണെങ്കിൽ നിങ്ങൾ പേറ്റന്റബിലിറ്റി തിരയൽ റിപ്പോർട്ടിന് അപേക്ഷിക്കയില്ല മറിച്ച് നിങ്ങൾ താൽക്കാലിക പേറ്റന്റിനായിരിക്കും ഫയൽ ചെയ്യുക ക്ലയന്റ് ഒരു ഉൽപ്പന്നം പുറത്തിറക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ വിദേശത്ത് ഫയൽ ചെയ്യാൻ താല്പര്യപെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ രീതി അവലംബിക്കാം ക്ലയന്റ് ഒരു ഉൽപ്പന്നം പുറത്തിറക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ വിദേശത്ത് ഫയൽ ചെയ്യാൻ താല്പര്യപെടുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ രീതി അവലംബിക്കാം ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ഒരു പേറ്റന്റബിലിറ്റി തിരയൽ റിപ്പോർട്ടിനായി പോകാറില്ല കാരണം നിങ്ങളുടെ സമയം നിർണായകമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങൾ ഒരു പേറ്റന്റബിലിറ്റി തിരയൽ റിപ്പോർട്ടിനായി പോകാറില്ല കാരണം നിങ്ങളുടെ സമയം നിർണായകമാണ് സമയ പരിമിതി ഉള്ള സന്ദർഭങ്ങളിൽ ഒരു തിരയൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം അതോടൊപ്പം പേറ്റന്റ് അപേക്ഷ ഡ്രാഫ്റ്റുചെയ്യാനും നിങ്ങൾക്ക് കഴിയും സമയ പരിമിതി ഉള്ള സന്ദർഭങ്ങളിൽ ഒരു തിരയൽ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം അതോടൊപ്പം പേറ്റന്റ് അപേക്ഷ ഡ്രാഫ്റ്റുചെയ്യാനും നിങ്ങൾക്ക് കഴിയും ഇത് രണ്ടും ഒരേസമയം ചെയ്യേണ്ടതാണ് ഇത് രണ്ടും ഒരേസമയം ചെയ്യേണ്ടതാണ് അതിലൂടെ ആ സമയം ലാഭിക്കാം മാത്രമല്ല ഡ്രാഫ്റ്റിംഗ് പ്രക്രിയ മെച്ചപ്പെടുത്തുന്ന പേറ്റന്റബിലിറ്റി റിപ്പോർട്ടിന്റെ ലക്ഷ്യവും ഇതിലൂടെ കൈവരിക്കാനാകും അതിലൂടെ ആ സമയം ലാഭിക്കാം മാത്രമല്ല ഡ്രാഫ്റ്റിംഗ് പ്രക്രിയ മെച്ചപ്പെടുത്തുന്ന പേറ്റന്റബിലിറ്റി റിപ്പോർട്ടിന്റെ ലക്ഷ്യവും ഇതിലൂടെ കൈവരിക്കാനാകും ഇതിനർത്ഥം നിങ്ങൾ പേറ്റന്റ് അപേക്ഷ ഡ്രാഫ്റ്റു ചെയ്യുമ്പോൾ എങ്ങനെ ക്ലെയിം ചെയ്യാമെന്ന് പേറ്റന്റബിലിറ്റി തിരയൽ റിപ്പോർട്ട് നിങ്ങളെ അറിയിക്കും ഇതിനർത്ഥം നിങ്ങൾ പേറ്റന്റ് അപേക്ഷ ഡ്രാഫ്റ്റു ചെയ്യുമ്പോൾ എങ്ങനെ ക്ലെയിം ചെയ്യാമെന്ന് പേറ്റന്റബിലിറ്റി തിരയൽ റിപ്പോർട്ട് നിങ്ങളെ അറിയിക്കും എങ്ങനെ മാറ്റങ്ങൾ വരുത്താം എങ്ങനെ മാറ്റങ്ങൾ വരുത്താം അപേക്ഷ എങ്ങനെ കുറച്ച് കൂടി മെച്ചപ്പെടുത്താം അപേക്ഷ എങ്ങനെ കുറച്ച് കൂടി മെച്ചപ്പെടുത്താം പേറ്റന്റബിലിറ്റി തിരയൽ റിപ്പോർട്ടുകളിൽ നിന്ന് ലഭിക്കുന്ന മുൻ പേറ്റന്റ് കല തിരയലും മറ്റ് കാര്യങ്ങളും എങ്ങനെ നേടാം എന്നും നിങ്ങൾ മനസിലാക്കും പേറ്റന്റബിലിറ്റി തിരയൽ റിപ്പോർട്ടുകളിൽ നിന്ന് ലഭിക്കുന്ന മുൻ പേറ്റന്റ് കല തിരയലും മറ്റ് കാര്യങ്ങളും എങ്ങനെ നേടാം എന്നും നിങ്ങൾ മനസിലാക്കും അതിനാൽ വേണ്ടത്ര സമയമില്ലെങ്കിൽ സ്വീകരിക്കാവുന്ന ഒരു സമീപനം തിരയലും ഡ്രാഫ്റ്റിംഗും ഒരേസമയം ചെയ്യുക എന്നതാണ് അതിനാൽ വേണ്ടത്ര സമയമില്ലെങ്കിൽ സ്വീകരിക്കാവുന്ന ഒരു സമീപനം തിരയലും ഡ്രാഫ്റ്റിംഗും ഒരേസമയം ചെയ്യുക എന്നതാണ് പേറ്റന്റബിലിറ്റി തിരയൽ റിപ്പോർട്ടിനായി നിങ്ങൾ പോകാത്തതിന്റെ മൂന്നാമത്തെ കാരണം പേറ്റന്റബിലിറ്റി തിരയൽ റിപ്പോർട്ട് സൃഷ്ടിക്കുന്നതിലൂടെ പ്രതേകിച്ച് ഒന്നും നേടാനാകില്ല എന്നതുകൊണ്ടാകാം പേറ്റന്റബിലിറ്റി തിരയൽ റിപ്പോർട്ടിനായി നിങ്ങൾ പോകാത്തതിന്റെ മൂന്നാമത്തെ കാരണം പേറ്റന്റബിലിറ്റി തിരയൽ റിപ്പോർട്ട് സൃഷ്ടിക്കുന്നതിലൂടെ പ്രതേകിച്ച് ഒന്നും നേടാനാകില്ല എന്നതുകൊണ്ടാകാം ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്തതാണെങ്കിലോ പരമ്പരാഗതമായി കൂടുതൽ മുൻ സാഹിത്യം തിരയാൻ ഇല്ലാത്ത സാഹചര്യമാണെങ്കിലോ സാങ്കേതികവിദ്യ അതീവ രഹസ്യമായി സൂക്ഷിക്കുന്ന മേഖലയാണെങ്കിലോ അതുമല്ലെങ്കിൽ ആ മേഖലയിൽ വളരെ കുറച്ച് വ്യക്തികൾ മാത്രമേയുള്ളുവെങ്കിലോ നിങ്ങൾ പേറ്റന്റബിലിറ്റി തിരയൽ റിപ്പോർട്ടിനായി പോകില്ല ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ചെയ്തതാണെങ്കിലോ പരമ്പരാഗതമായി കൂടുതൽ മുൻ സാഹിത്യം തിരയാൻ ഇല്ലാത്ത സാഹചര്യമാണെങ്കിലോ സാങ്കേതികവിദ്യ അതീവ രഹസ്യമായി സൂക്ഷിക്കുന്ന മേഖലയാണെങ്കിലോ അതുമല്ലെങ്കിൽ ആ മേഖലയിൽ വളരെ കുറച്ച് വ്യക്തികൾ മാത്രമേയുള്ളുവെങ്കിലോ നിങ്ങൾ പേറ്റന്റബിലിറ്റി തിരയൽ റിപ്പോർട്ടിനായി പോകില്ല കാരണം അത്തരം റിപ്പോർട്ട് കിട്ടുന്നതിലൂടെ കൂടുതലൊന്നും നേടാനാകില്ല കാരണം അത്തരം റിപ്പോർട്ട് കിട്ടുന്നതിലൂടെ കൂടുതലൊന്നും നേടാനാകില്ല തന്റെ പഠനമേഖലയിൽ ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കയാണെന്ന് തിരച്ചിൽ നടത്താതെ തന്നെ ക്ലയെന്റിന് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ ഒരു റിപ്പോർട്ടിനായി പോകേണ്ടതില്ല തന്റെ പഠനമേഖലയിൽ ഇല്ലാത്ത കാര്യങ്ങൾ എന്തൊക്കയാണെന്ന് തിരച്ചിൽ നടത്താതെ തന്നെ ക്ലയെന്റിന് വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ ഒരു റിപ്പോർട്ടിനായി പോകേണ്ടതില്ല ഉദാഹരണത്തിന് ചില യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർക്ക് അവരുടെ പഠനമേഖലയെക്കുറിച്ച് മികച്ച അറിവുണ്ടായിരിക്കാം അത് ഒരു തിരയൽ റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധാരണ ലഭിക്കുന്നതിനേക്കാൾ മികച്ചതായിരിക്കും ഉദാഹരണത്തിന് ചില യൂണിവേഴ്സിറ്റി പ്രൊഫസർമാർക്ക് അവരുടെ പഠനമേഖലയെക്കുറിച്ച് മികച്ച അറിവുണ്ടായിരിക്കാം അത് ഒരു തിരയൽ റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സാധാരണ ലഭിക്കുന്നതിനേക്കാൾ മികച്ചതായിരിക്കും ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒരു തിരയൽ റിപ്പോർട്ടിനായി പോകണമെന്നില്ല ഇത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒരു തിരയൽ റിപ്പോർട്ടിനായി പോകണമെന്നില്ല എന്നാൽ മുമ്പത്തെ പാഠങ്ങളിൽ നമ്മൾ മനസ്സലാക്കിയത് പോലെ തിരയൽ റിപ്പോർട്ട് ഡ്രാഫ്റ്റിംഗ് പ്രക്രിയക്ക് ഗണ്യമായ മൂല്യം ലഭിക്കുന്നതിനിടയാക്കും എന്നാൽ മുമ്പത്തെ പാഠങ്ങളിൽ നമ്മൾ മനസ്സലാക്കിയത് പോലെ തിരയൽ റിപ്പോർട്ട് ഡ്രാഫ്റ്റിംഗ് പ്രക്രിയക്ക് ഗണ്യമായ മൂല്യം ലഭിക്കുന്നതിനിടയാക്കും